ഇതുവരെ നമ്മൾ കണ്ടത് r സൂപ്പർ പൊസിഷൻ സിദ്ധാന്തം അടുത്തത് ഉറവിട പരിവർത്തനത്തിനായി പോകും യഥാർത്ഥത്തിൽ ഈ ഉറവിട പരിവർത്തനം r സർക്യൂട്ട് വിശകലനം ലളിതമാക്കും ചിലപ്പോൾ കമ്പ്യൂട്ടിംഗ് ബ്രാഞ്ച് കറന്റ് അല്ലെങ്കിൽ വോൾട്ടേജിന്റെ സർക്യൂട്ട് പരിഹരിക്കാൻ എളുപ്പമാണ് ഇത് വളരെ ലളിതമാണ് പക്ഷേ ചില കാര്യങ്ങൾ മനസിലാക്കാൻ ശ്രമിക്കണം ഇത് അടിസ്ഥാനപരമായി r ന്റെ ഒരു ആശയമാണ് ഇതിനെ തുല്യത എന്ന് വിളിക്കുന്നു തുല്യ സർക്യൂട്ട് എന്നത് യഥാർത്ഥ സർക്യൂട്ടുമായി സാമ്യമുള്ള v i സ്വഭാവം കാണിക്കുന്ന ഒന്നാണ് ഉദാഹരണത്തിന് ഈ ഉറവിട പരിവർത്തനം പരിഗണിക്കുക ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സർക്യൂട്ട് r ആണെങ്കിൽ ഇത് വോൾട്ടേജ് ഉറവിടം v ഇതാണ് പ്രതിരോധം R ഇതാണ് വോൾട്ടേജ് ഉറവിടം v ഇത് യഥാർത്ഥത്തിൽ ബൈലാറ്ററൽ ആണ് ഈ സർക്യൂട്ടിൽ നിന്ന് ഒന്നുകിൽ സമാന്തരമായോ മറ്റേതെങ്കിലും രീതിയിലോ അതിനെ കറന്റ് സോഴ്സിലേക്കോ പ്രതിരോധം R യിലേക്കോ പരിവർത്തനം ചെയ്യാൻ കഴിയും ടെർമിനൽ 1 2 എന്നിവ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഈ സർക്യൂട്ട് ടെർമിനൽ 1 2 എന്നിവയിൽ ഇതിന് തുല്യമാകാം പക്ഷേ ടെർമിനൽ ഒന്ന് രണ്ട് എന്നിവയിലെ v i സ്വഭാവം രണ്ട് കേസുകൾക്കും തുല്യമായിരിക്കണം ഇപ്പോൾ r ന് മുമ്പ് നമ്മൾ എങ്ങനെ ഇവിടെ നിന്ന് ഇവിടെയെത്തുന്നു എന്താണ് ആ r ന്റെ ബന്ധം എന്താണ് i എന്നതിലെക് തുല്യമായത് എല്ലാം ചുവടെ നൽകിയിരിക്കുന്നതായി കാണും പക്ഷേ നമുക്ക് അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഉദാഹരണത്തിന് ആദ്യം അത് കരുതുക എന്നിട്ട് ഞാൻ ഇവിടെ ഒരു റെസിസ്റ്റൻസ് RL നെ ബന്ധിപ്പിക്കുന്നുവെന്ന് കരുതുക ഈ പ്രതിരോധം RL ആണെന്ന് കരുതുക ഈ വൈദ്യുതധാരയിലൂടെ ഇതിലേക്കുള്ള വൈദ്യുതധാര iL ആണെന്ന് കരുതുക ഇതിനർത്ഥം ഒരേ വൈദ്യുതധാര R RL എന്നിവയിലൂടെ ഒഴുകുന്നു കാരണം ഇവ രണ്ടും ശ്രേണിയിലാണ് അതിനാൽ iL ന്റെ എക്സ്പ്രഷൻ എഴുതുകയാണെങ്കിൽ r iL v R RL RL റെസിസ്റ്റൻസിലൂടെ ഒഴുകുന്ന വൈദ്യുതധാരയാണിത് റെസിസ്റ്റൻസ് RLനെ ബന്ധിപ്പിച്ചുവെന്ന് കരുതുക ഇപ്പോൾ ഈ സർക്യൂട്ടിനും ടെർമിനൽ ഒന്ന് രണ്ട് എന്നിവയിൽ രണ്ട് സർക്യൂട്ടിന്റെയും ഈ vi സ്വഭാവം തുല്യമായിരിക്കണം അതായത് സർക്യൂട്ടുകൾ പരസ്പരം തുല്യമാണ് ഞങ്ങൾ ഒരേ ലോഡ് റെസിസ്റ്റൻസ് RLനെ ബന്ധിപ്പിക്കുകയാണെങ്കിൽ ഇതും RL ആണ് ഇതിലൂടെ ഒഴുകുന്ന വൈദ്യുതധാര iL ആണെന്ന് കരുതുക ഇവിടെയും iL ഒഴുകുന്നു കൂടാതെ ഈ ഇൻഡിപെൻഡന്റ് കറന്റ് സോഴ്സ്ഉം സമയത്തിനായി ഞങ്ങൾ ഇൻഡിപെൻഡന്റ് വോൾട്ടേജ് സോഴ്സ്ഉം ഇൻഡിപെൻഡന്റ് കറന്റ് സോഴ്സ്ഉം പരിഗണിച്ചു അങ്ങനെയാണെങ്കിൽ RL വഴി ഒഴുകുന്ന ഈ വൈദ്യുതധാര iL അതിന് തുല്യമാണെന്ന് കണ്ടെത്താനാകും R r R RL i എന്ന കറന്റ് ഡിവിഷൻ രീതിയിലൂടെ ഇതാണ് നിലവിലെ ഉറവിടം i ഈ r iL ഉം ഈ iL ഉം രണ്ടും തുല്യമായിരിക്കണം ഇവിടെ ഇത് v R RL ഇവിടെ ഇത് iL എന്നത് നിലവിലെ ഡിവിഷൻ R R R R RL i ന് തുല്യമാണ് രണ്ടും തുല്യമാണെങ്കിൽ നമുക്ക് v R RL r R R RL i എന്ന് എഴുതാം അതിനാൽ R RL R RL ഇരുവശവും റദ്ദാക്കപ്പെടും ആത്യന്തികമായി ഇത് v r R i ആയി മാറും അതിനർത്ഥം ഇത് i v R ഇതിനർത്ഥം r എന്നാണ് വോൾട്ടേജ് ഡ്രോപ്പ് i iL RL ഇവിടെയും iL RL ഇത് സമാന v r i ആയിരിക്കണം ഇതിനർത്ഥം ഇത് ഉറവിട പരിവർത്തനമാണ് അതായത് r ൽ നിന്ന് ഒരു വോൾട്ടേജ് സ്രോതസ്സും R പ്രതിരോധവും ഉണ്ടെങ്കിൽ ഇത് കറന്റ് ഉറവിടത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയും അതേ കാര്യത്തിൽ നിന്ന് അത് r iL ആണെങ്കിൽ അത് R ആണ് ഈ കറന്റ് ഉറവിടത്തിൽ നിന്നുള്ള r ബൈലാറ്ററൽ നിന്നും ഈ സമാന്തര പ്രതിരോധത്തിൽ നിന്നും ഇതിനെ v i R ആക്കാൻ കഴിയും ഇത് വോൾട്ടേജ് ഉറവിടവും v ഉപയോഗിച്ച് R ശ്രേണിയിലുമാണ് ഇവയെല്ലാം താഴേയ്ക്ക് നൽകിയിരിക്കുന്നു പക്ഷേ ഇത് മനസ്സിലാക്കുന്നതിനാണ് ഇപ്പോൾ ചോദ്യം ഇതാണ് ഇതിനെ r എന്ന് വിളിക്കുന്നതും ഇവിടെ r ധ്രുവീയത കണ്ടെത്തുന്നതും ആൺ അതിനാൽ കറന്റ് i r കാണിക്കുന്നു അതാണ് കറന്റ് ഇവിടെ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നു ഇവിടെയും കറന്റ് ഇവിടെ നിന്ന് ഒഴുകുന്നു അതുകൊണ്ടാണ് ഈ പരിവർത്തനത്തിനായി പോകുമ്പോഴെല്ലാം അർത്ഥമാക്കുന്നത് r ശ്രേണിയിൽ v R എന്നിവയ്ക്കായി പോകുകയാണെങ്കിൽ i v R ഇത് v ആണ് ഇത് R ആണ് ഇത്തരത്തിലുള്ള പാർ r കറന്റ് സ്രോതസ്സിൽ നിന്നും ഈ പ്രതിരോധം സമാന്തരമായി ഉണ്ട് ഈ കറന്റ് ഉറവിടത്തെ വോൾട്ടേജ് സ്രോതസ്സിലേക്ക് പരിവർത്തനം ചെയ്യുകയാണെങ്കിൽ ഈ v തുല്യമായിരിക്കണം ir ഈ R ശ്രേണിയിൽ ആയിരിക്കണം തിരിച്ചും അതിനാൽ സമാനമായി ഒരു കാര്യം കൂടി ഇങ്ങനെയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് എന്നാൽ ധ്രുവത നോക്കുക കറന്റ് ദിശയിലുള്ള ഇൻഡിപെൻഡന്റ് കറന്റ് സോഴ്സ്ഇന്റെ ദിശ മുകളിലേക്കാണ് ഇപ്പോൾ അതിനുപകരം ഈ ടെർമിനൽ എങ്കിൽ ഇത് എന്റെതാണെന്ന് കരുതുക ഉദാഹരണത്തിന് അത് ആണെങ്കിൽ ഇവിടെയും കറന്റ് ദിശ താഴേക്ക് ആയിരിക്കണം അതിനാൽ അരരൌ പ്ലസ് ആയിരിക്കേണ്ട ധ്രുവീയത നോക്കുമ്പോൾ കറന്റ് ദിശ താഴേക്ക് ആയിരിക്കണം ബാക്കിയുള്ളവ അതേപടി നിലനിൽക്കും അതിനാൽ ധ്രുവത്വം മാത്രം പരിശോധിക്കേണ്ടതുണ്ട് ഇവിടെ അത് ആണെങ്കിൽ ടിപ്പ് എന്നാൽ ഈ അരരൌ മുകളിലേക്കാണ് അത് വിപരീതമാണെങ്കിൽ അത് വിപരീതമാക്കുകയും ചെയ്യും അതിനാൽ കറന്റ് ദിശ അതേപടി തുടരും ഇത് യഥാർത്ഥത്തിൽ ഇൻഡിപെൻഡന്റ് ഉറവിടങ്ങളുടെ ഉറവിട പരിവർത്തനമാണ് ഇപ്പോൾ ഡിപെൻഡന്റ് ഉറവിടങ്ങളിലും ഇത് ശരിയാണ് ഞാൻ പറഞ്ഞതെല്ലാം ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയതാണ് നീല മഷിയിൽ ഞാൻ എഴുതിയതെല്ലാം ഇവിടെയുണ്ട് പക്ഷേ അവിടെ ഞാൻ അത് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചതെല്ലാം സർക്യൂട്ട് ചെയ്യുന്നു ഞാനത് വരച്ചിട്ടില്ല പക്ഷേ ഞാൻ തുടക്കം കാണിച്ചു ഇവയെല്ലാം ഒന്നുതന്നെയാണ് ഘട്ടം ഘട്ടമായി എല്ലാം ഇവിടെ എഴുതിയിരിക്കും പക്ഷേ ആ വൈദ്യുത തുല്യമായ i v v R അല്ലെങ്കിൽ v i R എന്നത് ഞാൻ വിശധികരിച്ചായിരുന്നു ഇപ്പോൾ അതിനർത്ഥം v യുടെ ധ്രുവത വിപരീതമാണെങ്കിൽ ഞാൻ പറഞ്ഞതിന് തുല്യമായി നിലനിർത്താൻ ഓറിയന്റേഷൻ ഞാൻ വിപരീതമായിരിക്കണം അടിവരയിട്ടതും ഇപ്പോൾ ഉറവിട പരിവർത്തനം ആശ്രിത ഉറവിടങ്ങളിലും പ്രയോഗിച്ചു ഉദാഹരണത്തിന് ഇത് പിന്നീടുള്ളതാണെങ്കിൽ r അടങ്ങിയിരിക്കുന്ന r നായി ഈ r സംഖ്യകൾ എവിടെയാണ് പരിഗണിക്കുക എന്ന് r കാണും അതിനാൽ വോൾട്ട് ആണെങ്കിൽ ഇത് വോൾട്ടേജ് ഉറവിടത്തെ ആശ്രയിച്ചുള്ള വോൾട്ടേജ് ഉറവിടമാണ് ഇത് ബൈലാറ്ററൽ കൂടിയാണ് ഇത് കറന്റ് ഉറവിടത്തെ ആശ്രയിച്ചിരിക്കും പിന്നീട് ഇത് കാണും അതിനാൽ r ഡിപെൻഡന്റ് വോൾട്ടേജിലോ കറന്റ് ഉറവിടങ്ങളിലോ നമുക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന അതേ രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും ഇപ്പോൾ ഉറവിട പരിവർത്തനം ഉപയോഗിച്ച് ഒരു ഉദാഹരണം പരിഗണിക്കുക സർക്യൂട്ടിലെ v 0 നിർണ്ണയിക്കുക കാരണം ഇത് r v 0 ആണെന്ന് ഞാൻ അർത്ഥമാക്കുന്നു സർക്യൂട്ടിലെ v 0 കണ്ടെത്തേണ്ടതുണ്ട് ഒരു സ്വതന്ത്ര കറന്റ് സ്രോതസ്സ് ഉണ്ട് ഇത് 4 ആമ്പിയർ ആണ് ഒരു സ്വതന്ത്ര വോൾട്ടേജ് സ്രോതസ്സ് 12 വോൾട്ട് ഉണ്ട് അതിനാൽ ദിശ നോക്കുക ഇവിടെ ദിശ മുകളിലേക്കാണ് ഈ ഭാഗം പരിവർത്തനം ചെയ്യുമ്പോൾ r ഈ കറന്റ് സോഴ്സും സമാന്തരമായി ഒരു റെസിസ്റ്ററും ഉണ്ട് ഇത് r ലേക്ക് പരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചാൽ അത് ആ r വോൾട്ടേജ് സ്രോതസ്സായും ശ്രേണിയിലെ പ്രതിരോധമായും മാറ്റണം ഈ 3Ω പ്രതിരോധം ശ്രേണിയിലാണ് 4 r v 4 3 അതായത് r 12 വോൾട്ട് ഇത് തുല്യമായ വോൾട്ടേജായിരിക്കും ഈ ഭാഗം r നിലവിലെ ഉറവിടത്തിൽ നിന്ന് വോൾട്ടേജിലേക്ക് മാത്രം പരിവർത്തനം ചെയ്യുന്നു എന്നാൽ ഇത് നോക്കൂ അത് താഴേക്കാണ് അതിനാൽ ഈ ഭാഗത്തിനായി ഞാൻ ഇവിടെ വരച്ചാൽ ഇത് ഇതായിരിക്കും ഇത് ആയിരിക്കും ഇത് എന്റെ 12 വോൾട്ട് ആയിരിക്കും ഈ പ്രതിരോധം ഇതിലുണ്ട് Ω ഇത് 3Ω ആയിരിക്കും ഈ 3 Ω ഉം ഈ 3 Ω ഉം രണ്ടും ശ്രേണിയിലായിരിക്കും പിന്നീട് സർക്യൂട്ട് കാണാം അതിനാൽ സമാനമായി ഇവിടെയും ഈ 3Ω ഉണ്ടെങ്കിൽ ഇത് 12 Ω 12 വോൾട്ട് ആണ് ഇപ്പോൾ അത് r ലേക്ക് പരിവർത്തനം ചെയ്യണമെങ്കിൽ ഉദാഹരണത്തിന് ഈ ഭാഗം നിങ്ങൾ അതിനെ നിലവിലെ ഉറവിടത്തിലേക്കും പ്രതിരോധത്തിലേക്കും പരിവർത്തനം ചെയ്യണമെങ്കിൽ ഈ 3Ω സമാന്തരമായി i 123 ന് 4 ആമ്പിയറിന് തുല്യമായിരിക്കും നിലവിലെ ഉറവിടത്തെ പ്രതിനിധീകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ 3 Ω പ്രതിരോധം സമാന്തരമായി സംഭവിക്കും ഇത് r കറന്റ് സോഴ്സ്ആയിരിക്കും അരരൌ മുകളിലേക്കാണ് കാരണം ധ്രുവത ഇവിടെയുണ്ട് ഇത് r 4 ആമ്പിയർ ആയിരിക്കും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സർക്യൂട്ട് r കോൺഫിഗറേഷൻ മാറും അതിനാൽ എല്ലാത്തിനും മുമ്പായി അത് ചുവടെയുണ്ട് പക്ഷേ അതിനുമുമ്പ് ഞാൻ അത് യഥാർത്ഥത്തിൽ എങ്ങനെ നേടി എന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് അതിനാൽ ഈ ഭാഗം ഞങ്ങൾ 12 വോൾട്ടിലേക്ക് പരിവർത്തനം ചെയ്തു ഇത് 12 വോൾട്ട് ആണ് ധ്രുവീയതയെക്കുറിച്ചും ഞാൻ പറഞ്ഞു കാരണം കറന്റ് സോഴ്സ് r താഴേക്കാണ് ഈ 3 Ω ഉം ഈ 3Ω ഉം ശ്രേണിയിലാണ് അതുപോലെ തന്നെ പരിവർത്തനം ചെയ്ത ഈ ധ്രുവത മുകളിലേക്കുള്ള ദിശയിലായിരുന്നു അതിനാൽ ഇത് r ആണ് അരരൌ മുകളിലേക്കാണ് ഇത് 4Ω ആണ് ഈ വശത്തെ ഭാഗം ഞങ്ങൾ ഇതുപോലെ പരിവർത്തനം ചെയ്തു അതിനാൽ ഇതിനുശേഷം ഞങ്ങളുടെ ലക്ഷ്യം v 0 കണ്ടെത്തണം എന്നതാണ് അടുത്തതായി ഈ 3 ഉം 3 ഉം എന്ത് സംഭവിക്കും എന്നത് രണ്ടും പരമ്പരയിലാണ് അതിനാൽ 3 3 അത് 6Ω ആയിരിക്കും ഇപ്പോൾ സർക്യൂട്ടിന്റെ ഈ ഭാഗം 12 വോൾട്ട് ആണ് ഈ 6Ω ശ്രേണിയിലാണ് ഇത് കറന്റ് സോഴ്സിലേക്ക് പരിവർത്തനം ചെയ്യുക സമാന്തരമായി 6 പ്രതിരോധം ഇടുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിലവിലെ I 126 2 ആമ്പിയർ അതായത് ഈ ഭാഗം അത് എവിടെയെങ്കിലും ആയിരിക്കും അപ്പോൾ ഈ ഭാഗം ഇതുപോലെയാക്കാം നോക്കൂ ഇത് ഇവിടെ താഴെയാണ് അതിനാൽ ഇത് r 2 ആമ്പിയർ ആണ് ഇവിടെ ഇത് 3 3 6Ω അതിനാൽ ഈ 6Ω സമാന്തരമായിരിക്കും അതിനുശേഷം ആ സർക്യൂട്ടിനെ ബന്ധിപ്പിക്കുക ഈ 4 ആമ്പിയർ കറന്റ് സോഴ്സിലേക്ക് പരിവർത്തനം ചെയ്യുന്ന രണ്ട് കാര്യങ്ങളിലും ഇത് അനുവദിക്കുക അടുത്തതിലേക്ക് പോയാൽ ഇത് ഇവിടെ r ആണ് ഞാൻ കുറച്ച് മുകളിലേക്ക് പോകട്ടെ ഇത് 2 ആമ്പിയർ r താഴേക്ക് ആണ് ഇത് 4 ആമ്പിയർ r മുകളിലേക്കാണ് ഇപ്പോൾ എല്ലാം 3 ഇത് ഒന്ന് ഇത് ഇത് ഒന്ന് ഇവ മൂന്നും സമാന്തരമാണ് ഇത് ഒരു സാധാരണ നോഡ് ആയതിനാൽ വൈദ്യുത ഘടകങ്ങളൊന്നും ഇവിടെ ബന്ധിപ്പിച്ചിട്ടില്ല അതിനാൽ 6 Ω 3 അവ സമാന്തരമാണ് പക്ഷേ നമ്മൾ v 0 കണ്ടെത്തണം നമുക്ക് 8Ω ഇല്ലാതാക്കാൻ കഴിയില്ല എന്നാൽ 6 3 6 8 3 എല്ലാം സമാന്തരമാണ് എന്നാൽ 6 ഉം 3 ഉം തുല്യമായി എടുക്കുക ഇവ രണ്ടും സമാന്തരമാണ് സമാന്തരമാണെങ്കിൽ ഈ കാര്യം 6 36 3 2Ω ആണ് ഇവിടെ ഇത് 2Ω ആണ് ഈ കാര്യത്തിന് സമാന്തരമായി ഈ 8Ω ഉം ഈ 2 ആമ്പിയറും ഈ 4 ആമ്പിയറും എഴുതിയിരിക്കുന്നു അതിനാൽ കൂടുതൽ ലളിതമാക്കുക എന്നാണ് ഇതിനർത്ഥം ഇത് പരിശോധിച്ചാൽ 4 ആമ്പിയർ മുകളിലേക്കും 12 ആമ്പിയർ 2 ആമ്പിയർ താഴേക്കും ഇത് r കോമൺ നോഡാണ് എല്ലാം സമാന്തരമാണ് ഇത് എല്ലാം സമാന്തരമാണ് അതിനാൽ 4 ആമ്പിയറിന്റെ ഫലമായി അത് മുകളിലേക്കും താഴേക്കും ആണ് അതിനാൽ ഫലമായി 2 ആമ്പിയർ മുകളിലേക്ക് വരും അത് r 4 2 ആമ്പിയർ 2 ആമ്പിയറിന് തുല്യമാണ് ഇത് മുകളിലേക്കാണ് കാരണം ഇത് 4 മുകളിലാണ് ഇത് താഴെയാണ് തുല്യമായത് 4 2 2 ആമ്പിയർ ആണ് കാരണം എല്ലാം ഒരു അവബോധത്തിൽ നിന്ന് സമാന്തരമായിരിക്കുന്നതിനാൽ ഇത് എളുപ്പത്തിൽ നിർമ്മിക്കാൻ കഴിയും ഇത് 2 ആമ്പിയറാണ് ഇതിന്റെ ഫലമായി ഇത് 8Ω ആണ് ഇത് കറന്റ് ഡിവിഷനിലേക്ക് പോയതിന് ശേഷം ഇത് 2Ω ആണ് നിങ്ങൾ കറന്റ് ഡിവിഷനായി പോയാൽ ഈ രണ്ട് ആമ്പിയർ കറന്റ് ഇത് 2 ആമ്പിയർ കറന്റാണ് പിന്നെ എന്താണ് ഈ i ഇപ്പോൾ നമ്മൾ കറന്റ് ഡിവിഷൻ ഉപയോഗിക്കുന്നു i അതിന് തുല്യമാണെന്ന് കണ്ടെത്തും അത് 8 Ω പ്രതിരോധത്തിലേക്ക് ഒഴുകുന്ന വൈദ്യുതധാര 2 ആയിരിക്കും ഈ 22 8 2 യഥാർത്ഥത്തിൽ 0 4 ആമ്പിയർ ആണ് ഇതിനർത്ഥം r v 0 8 i കാരണം ഇത് 8 ആണ് ഇത് i 8 i അതിനാൽ 8 r 0 4 3 2 വോൾട്ടിന് തുല്യമാണ് അത് ഉത്തരം ആയിരിക്കണം ഇത് ചെയ്യുന്നത് ഇങ്ങനെയാണ് അതിനാൽ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പരിഹരിച്ചു ഞാൻ പറഞ്ഞതിലൂടെ കടന്നുപോകുക എല്ലാം എങ്ങനെ പരിഹരിക്കാമെന്ന് എഴുതിയിരിക്കുന്നു പതുക്കെ പതുക്കെ താഴേക്ക് വരിക അതിനാൽ ഇത് ഞാൻ പറഞ്ഞു അതിനുള്ള ഉത്തരം 3 2 വോൾട്ട് ആണെന്ന് എല്ലാം ഇവിടെ എഴുതിയിരിക്കുന്നു അതിനാൽ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് എളുപ്പത്തിൽ കണ്ടെത്താനാകും ആ സമയത്ത് ഈ വീഡിയോയിലൂടെ പോകുമ്പോൾ അത് നിർമ്മിക്കാൻ കഴിയും പക്ഷേ ഞാൻ വിശദീകരിച്ചതെല്ലാം മറ്റൊന്ന് എടുക്കുക ഇപ്പോൾ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് ചിത്രം 14 ൽ കാണിച്ചിരിക്കുന്ന സർക്യൂട്ട് r ലെ ix നിർണ്ണയിക്കുക ഇത് അധ്യായം വിഷയം 4 ഒരു ഡിപെൻഡന്റ് r വോൾട്ടേജ് ഉറവിടമുണ്ട് ഇത് r 4 ആമ്പിയർ r ഇൻഡിപെൻഡന്റ് കറന്റ് ഉറവിടമാണ് Ix എന്താണെന്ന് കണ്ടെത്തേണ്ടതുണ്ട് ഇപ്പോൾ ചോദ്യം ഈ ഡിപെൻഡന്റ് വോൾട്ടേജ് സ്രോതസ്സും 5 Ω ഉം ഇവ രണ്ടും ഈ രണ്ട് ഈ രണ്ട് 5 Ω ഇവ രണ്ടും ശ്രേണിയിലാണ് അതിനാൽ അതിനെ r ഡിപെൻഡന്റ് കറന്റ് ഉറവിടത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതേ പരിവർത്തന അതേ തത്ത്വചിന്ത ഇവിടെ കാണണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു ഉദാഹരണമാണ് ഇത് ഡിപെൻഡന്റ് r വോൾട്ടേജ് ഉറവിടമാണ് ഇത് r 2 ix ആണെങ്കിൽ v ധ്രുവീയതയ്ക്ക് തുല്യമാണ് ഇവിടെ നോക്കൂ ആണ് V 2 ix ആണെങ്കിൽ ഞാൻ അതിനെ ഒരു ഡിപെൻഡന്റ് r കറന്റ് ഉറവിടത്തിലേക്ക് പരിവർത്തനം ചെയ്യണമെങ്കിൽ i r v 5 കാരണം 5Ω ഉണ്ട് v r 2 ix 5 0 ഡിപെൻഡന്റ് വോൾട്ടേജ് ഉറവിടത്തെ ഡിപെൻഡന്റ് കറന്റ് ഉറവിടത്തിലേക്ക് പരിവർത്തനം ചെയ്യും അതിനാൽ ഇത് 0 ഇപ്പോൾ അതിനെ പ്രതിനിധീകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനർത്ഥം ഇവിടെയുണ്ട് അരരൌ താഴേക്ക് ആയിരിക്കും അതിനാൽ ഇത് r 0 4 r ix ആയിരിക്കും ഇതിനൊപ്പം 5 Ω പ്രതിരോധം സമാന്തരമായി 5 Ω പ്രതിരോധം ഇതുമായി ബന്ധിപ്പിക്കും ബാക്കിയുള്ളവ ഇതുമായി ബന്ധിപ്പിക്കുക ഒരേ തത്ത്വചിന്ത ഉപയോഗിച്ച് നമുക്ക് അതിനെ ഡിപെൻഡന്റ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആക്കാൻ കഴിയും അതിനാൽ തുല്യമായതിലേക്ക് പോയാൽ സർക്യൂട്ട് ഇതുപോലെയാകുന്നു ഈ അരരൌ താഴേക്ക് ആയിരിക്കും ധ്രുവീയതയും 0 4 ix ഉം ix 5Ω ഉം ഇത് 10Ω ആണ് ഇത് 5Ω ആണ് കൂടാതെ അടിസ്ഥാനപരമായി 10Ω 5Ω എന്നിവയിലൂടെ വൈദ്യുതധാര കണ്ടെത്തേണ്ടതുണ്ട് എന്നാൽ കറന്റ് ഡിവിഷനായി ഞങ്ങൾ പോകും ഇത് 4 ആമ്പിയർ ആണ് ഇപ്പോൾ കറന്റ് ഡിവിഷനിലേക്ക് നീങ്ങുക r നോക്കിയാൽ നമ്മൾ ഉണ്ടാക്കിയത് ix 55 10 4 0 യഥാർത്ഥത്തിൽ ഇത് മുകളിലേക്ക് ഇ r താഴേയ്ക്കുമാണ് അതിന്റെ ഫലമായി അത് യഥാർത്ഥത്തിൽ r 4 ആയിരിക്കും ഇവിടെ ഇത് 4 0 4 ix ആണ് ദിശ മുകളിലേക്ക് ആയിരിക്കും എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് ഈ വൈദ്യുതധാരയെ 10 Ω 5Ω എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു നിലവിലെ ഡിവിഷൻ രീതി r ix r 510 5 r 4 0 4 ix അടിസ്ഥാനപരമായി ഇത് മൂന്നിലൊന്നാണ് കാരണം 5 മുതൽ 15 വരെ 4 0 4 ix അതിനുശേഷം ix ന് പരിഹരിക്കുക അതിനാൽ ഈ സർക്യൂട്ട് എങ്ങനെ പരിഹരിക്കാമെന്ന് r അവബോധത്തിൽ നിന്ന് നാം ഓർക്കണം ഇത് പരിഹരിച്ചതിനുശേഷം നമുക്കറിയാം r ix 1 176 ആമ്പിയർ ലഭിക്കുന്നു R അവബോധത്തിൽ നിന്ന് അത് എങ്ങനെ ചെയ്യാമെന്നും പരിഹരിക്കാൻ കഴിയുമെന്നുമാണ് അടുത്തത് അടുത്തത് ഉറവിട പരിവർത്തന സാങ്കേതികതയാണ് ഉപയോഗിക്കുന്നത് ഈ ചിത്രം 16 ലെ ലോഡ് റെസിസ്റ്റൻസ് RL 4Ω വഴി വൈദ്യുതധാര നിർണ്ണയിക്കുക ഈ 4 Ω പ്രതിരോധത്തിലൂടെ r കറന്റ് കണ്ടെത്തണം എല്ലാ 4 ഉം ഈ 4 ഉം ഈ 4 ഉം രണ്ടും ശ്രേണിയിലാണ് അതിനാൽ 8Ω ആയിരിക്കും പക്ഷേ ഇത് 4Ω നീക്കംചെയ്യാൻ കഴിയില്ല കാരണം ഈ ലോഡ് റെസിസ്റ്റൻസ് 4Ω വഴി വൈദ്യുതധാര കണ്ടെത്തേണ്ടതുണ്ട് ഇത് 12 വോൾട്ട് ഉറവിടമാണെന്നും ധ്രുവത ആണെന്നും നോക്കിയാൽ ഇത് ഇതാണ് 6Ω ഇത് കറന്റ് ഉറവിടത്തിലേക്ക് പരിവർത്തനം ചെയ്യണമെങ്കിൽ ഈ ഭാഗം കറന്റ് ഉറവിടത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയാണെങ്കിൽ 6Ω അതിനു സമാന്തരമായിരിക്കും അതിനാൽ i r 12 6 ഈ 126 2 ആമ്പിയർ ഇൻഡിപെൻഡന്റ് കറന്റ് ഉറവിടത്തിന്റെ ദിശ മുകളിലേക്ക് ആയിരിക്കും ആ സമയത്ത് ഈ 6Ω ഈ 12Ω നും ഈ 12Ω നും സമാന്തരമായിരിക്കും ഇത് ഈ ഭാഗത്തെ കറന്റ് ഉറവിടമായും 6Ω ആയും പരിവർത്തനം ചെയ്യുകയാണെങ്കിൽ സമാന്തരമായി സർക്യൂട്ട് എങ്ങനെയായിരിക്കുമെന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആമ്പിയറുകളും നോക്കുക ഇത് r 6Ω ആണ് ഈ പരിവർത്തനത്തിന് ശേഷം ഇത് 12 ആണ് ഈ 12Ω ഉണ്ട് ഈ 4 Ω ഉം ഈ 4Ω ഉം ഉണ്ട് ഇത് ഉള്ളതുപോലെ തന്നെ ഇപ്പോൾ ഒരിക്കൽ ഇത് ചെയ്തുകഴിഞ്ഞാൽ ഈ 6 Ω 12Ω എന്നിവ രണ്ടും സമാന്തരമായിരിക്കും അതിനാൽ 6 126 12 എന്ന തുല്യത 4 Ω 12 6 r 7218 ന് തുല്യമാണെന്ന് കണ്ടെത്തുക ഈ 4Ω ഇവിടെ ഈ 4Ω ന് തുല്യമാണ് ഇത് 2 ആമ്പിയർ ആണ് ഇത് 4 ആമ്പിയർ ആണ് രണ്ടും മുകളിലേക്കുള്ള ദിശ R ആണ് RL ഉം 4 Ω ഇവയും ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാനാകുന്നത് ഈ നിലവിലെ ഉറവിടവും ഇവ രണ്ടും ഒരു വോൾട്ടേജ് ഉറവിടത്തിലേക്ക് പരിവർത്തനം ചെയ്ത് 4Ω ശ്രേണിയിൽ ഇടുക അതിനാൽ v r i R അതിനാൽ ഇത് 2 ആമ്പിയർ ഇത് 4 ആമ്പിയർ ആണ് അതിനാൽ 2 4 ഇത് r 8 വോൾട്ട് ആണ് ഇവിടെ ഇത് 8 വോൾട്ടും ദിശ മുകളിലുമാണ് അതിനാൽ ഇത് r ആണ് അതിനർത്ഥം ഈ 8 വോൾട്ടും ഈ 4 ഉം ആണ് ഇവ രണ്ടും ശ്രേണിയിലാണ് അതോടൊപ്പം ഈ 4 Ω പ്രതിരോധവും ഉണ്ടായിരുന്നു അതിനാൽ 4 ഉം 4 ഉം രണ്ടും ശ്രേണിയിലാണ് ഇത് 4 ആമ്പിയർ ആണ് സർക്യൂട്ടിന്റെ ഈ ഭാഗം അതേപടി നിലനിർത്തുന്നു പരിവർത്തനത്തിന് ശേഷം ഈ രണ്ട് 4 4 8Ω ആണ് അവ ശ്രേണിയിലാണ് അടുത്തത് ഈ 4 ഉം 48 ഉം ആണ് അതിനാൽ 4 4 അത് 8Ω ഉം 8 വോൾട്ട് ഉറവിടവുമുണ്ട് കറന്റ് ഉറവിടമായി പരിവർത്തനം ചെയ്യുക അതിനാൽ i 88 1 ആമ്പിയർ ഇത് 1 ആമ്പിയർ ആണ് ഇവിടെ ഉണ്ടെങ്കിൽ അരരൌ ഇവിടെയുണ്ട് അരരൌ മുകളിലാണ് ഈ 8Ω r ലാണ് ഈ കറന്റ് ഉറവിടത്തിന് സമാന്തരമാണ് ഈ 4 ആമ്പിയറും ഈ 4 പതിവുപോലെ അവിടെയുണ്ട് അതിനർത്ഥം ഈ 4 ആമ്പിയർ മുകളിലാണെന്നും ഈ 1 ആമ്പിയർ മുകളിലാണെന്നും ഈ r ഇതെല്ലാം ഇത് ഇത് ഇത് ഈ 4 4 എന്നിവ അടിസ്ഥാനപരമായി 8Ω ആണെന്നും എന്നാൽ ഇതെല്ലാം സമാന്തരവുമാണ് 1 ആമ്പിയർ 8Ω നോക്കുകയാണെങ്കിൽ 4 ആമ്പിയർ ഈ 4 4 8Ω എല്ലാം സമാന്തരമാണ് ഈ 4 ന്റെ ഫലമെടുത്താൽ ഈ ഇൻഡിപെൻഡന്റ് കറന്റ് ഉറവിടം 4 ആമ്പിയർ ഈ ഒരു ആമ്പിയറിലേക്ക് മുകളിലാണ് അതിനാൽ ഫലം 5 ആമ്പിയർ ആയിരിക്കും ഫലമായി 5 ആമ്പിയർ മുകളിലേക്ക് ആയിരിക്കും അതിനാൽ 5 ആമ്പിയർ ഇവിടെയുണ്ട് r ഇവിടെ 5 ആമ്പിയർ ആണ് കാരണം 4 ഉം 1 ഉം മുകളിലേക്കുള്ള ദിശയാണ് അതിനാൽ 5 ആമ്പിയർ ഇവിടെയുണ്ട് ഈ 8Ω ഇവിടെയുണ്ട് ഈ 4Ω ഉണ്ട് നിലവിലെ ഡിവിഷൻ രീതിയിൽ നിന്ന് ഇത് 8Ω കൂടിയാണ് ഇതും 4 4 ആണ് ഇവ രണ്ടും 8 Ω ശ്രേണിയിലാണ് ഇതിലേക്ക് ഒഴുകുന്ന നിലവിലെ 2 5 ആമ്പിയർ ഇത് 52 ആണ് ഞാൻ ഇത് iL 88 4 4 ആക്കിയാൽ കറന്റ് ഡിവിഷൻ രീതി കാരണം ഇവ രണ്ടും ശ്രേണിയിലാണ് ഈ കറന്റ് 5 ആമ്പിയറിലേക്ക് 4 4 ഇത് 5 ആണ് 5 ആമ്പിയറായി മാറും അതാണ് ഉത്തരം കറന്റ് ഇതിലൂടെ ഒഴുകുന്നു ഈ കാര്യങ്ങളെല്ലാം ഇവിടെ വിശദീകരിച്ചിരിക്കുന്നു എല്ലാം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ഈ വീഡിയോ പ്രഭാഷണത്തിലൂടെ കടന്നുപോകുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തിരികെ പോകാം പക്ഷേ അത് എങ്ങനെ പരിഹരിക്കാമെന്ന് ഞാൻ വിശദീകരിച്ചു അതിനാൽ ഇതെല്ലാം വിശദീകരിച്ചു ഒടുവിൽ 2 5 ആമ്പിയർ ഞങ്ങൾ പഠിച്ച ഉറവിട പരിവർത്തനത്തിന് ശേഷം അടുത്തതായി പഠിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം RThevenin's സിദ്ധാന്തമാണ് ഈ വിഭാഗത്തിൽ പ്രതിരോധവും ഉറവിടങ്ങളും അടങ്ങിയ രണ്ട് ടെർമിനൽ സർക്യൂട്ട് എങ്ങനെ പഠിച്ചുവെന്ന് തുല്യമായ സർക്യൂട്ട് ഉപയോഗിച്ച് എങ്ങനെ മാറ്റിസ്ഥാപിക്കുമെന്ന് നിങ്ങൾ പഠിക്കും r നുള്ള ഒരു സാധാരണ ഉദാഹരണമായി അവസാനത്തെ സർക്യൂട്ട് ഉണ്ടെന്ന് കരുതുക എന്നാൽ നിലവിലെ പ്രത്യേക ബ്രാഞ്ച് കണ്ടെത്തുക എന്നതാണ് r ന് താൽപ്പര്യം ആ ബ്രാഞ്ച് r ഉം ബ്രാഞ്ച് റെസിസ്റ്റൻസ് വേരിയബിൾ ആണെങ്കിലും ബാക്കി സർക്യൂട്ടിന് മാറ്റമില്ലെങ്കിൽ ബാക്കി സർക്യൂട്ടിന് തെവെനിൻ വോൾട്ടേജ് എന്ന തുല്യമായ r വോൾട്ടേജും തെവെനിൻ റെസിസ്റ്റൻസ് എന്ന തുല്യമായ റെസിസ്റ്റൻസും കണ്ടെത്താൻ കഴിയും ഉദാഹരണത്തിന് വ്യത്യസ്ത വൈദ്യുത ഉപകരണങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഗാർഹിക out ട്ട്ലെറ്റ് ടെർമിനൽ ഒരു വേരിയബിൾ ലോഡ് ഉൾക്കൊള്ളുന്നുവെന്ന് കരുതുക ഓരോ തവണയും വേരിയബിൾ മാറുമ്പോൾ മുഴുവൻ സർക്യൂട്ടും വീണ്ടും വിശകലനം ചെയ്യേണ്ടതുണ്ട് അതായത് അവസാന സർക്യൂട്ട് എടുക്കുക ഒരു പ്രത്യേക ബ്രാഞ്ച് R ആയി മാറുന്നു അതിനാൽ ഇതുവരെ പഠിച്ചതെന്തും വീണ്ടും വീണ്ടും മനസിലാക്കി മുഴുവൻ സർക്യൂട്ടും പരിഹരിക്കേണ്ടതുണ്ട് ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് സമയമെടുക്കുന്ന പ്രക്രിയയാണ് ഈ പ്രശ്നം ഒഴിവാക്കാൻ തെവെനിന്റെ സിദ്ധാന്തം ഒരു നല്ല സാങ്കേതികത നൽകുന്നു അതിലൂടെ സർക്യൂട്ടിന്റെ നിശ്ചിത ഭാഗം തുല്യമായ സർക്യൂട്ട് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാൻ കഴിയും ഇതിനെ തെവെനിന്റെ സിദ്ധാന്തം എന്ന് വിളിക്കുന്നു അതിൽ എന്താണ് പറയുന്നത് ഇപ്പോൾ അടുത്തത് r ന്റെ രണ്ട് ടെർമിനൽ സർക്യൂട്ട് ആണ് യഥാർത്ഥ സർക്യൂട്ടിന് മറ്റ് സർക്യൂട്ടുകളുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്ന രണ്ട് പോയിന്റുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് അർത്ഥമാക്കുന്നത് എന്നിരുന്നാലും നിയന്ത്രിത വേരിയബിളുകളിൽ നിയന്ത്രണമുണ്ട് ഏതെങ്കിലും നിയന്ത്രിത ഉറവിടങ്ങൾ യഥാർത്ഥ സർക്യൂട്ടിനുള്ളിൽ ദൃശ്യമാകണം അതിനാൽ ഇവിടെ ആദ്യമായി തെവെനിൻ പഠിക്കുന്നവർ അത് എങ്ങനെ ചെയ്യാമെന്നും എങ്ങനെ നേടാമെന്നും വളരെ ശ്രദ്ധാലുവായി മാനസിലാക്കണം ഉദാഹരണത്തിന് ഈ കണക്ക് ഈ ടെർമിനലിന്റെ ഇടതുവശത്തുള്ള സർക്യൂട്ട് ആയ ഒരു ലീനിയർ സർക്യൂട്ട് കാണിക്കുന്നുവെന്ന് കരുതുക ടെർമിനലിന്റെ ഇടതുവശത്ത് ഇത് 1 2 ആണ് ഇത് ടെർമിനൽ 1 ഉം ചിത്രം r ലെ 2 ഉം ഇത് അറിയപ്പെടുന്നു ലീനിയർ സർക്യൂട്ടിന് രണ്ട് ടെർമിനൽ സർക്യൂട്ട് നൽകിയിരിക്കുന്നു ചുവടെയുള്ള ഈ തെവെനിൻ തുല്യമാണ് ഇത് വികസിപ്പിച്ചെടുത്തത് എം ലിയോൺ തെവെനിൻ ആണ് 1857 മുതൽ 1926 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ആയുസ്സ് 1883 ൽ അദ്ദേഹം ഒരു ഫ്രഞ്ച് ടെലിഗ്രാഫ് എഞ്ചിനീയറായിരുന്നു 1883 ൽ 26 വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഈ ആശയം നൽകി ഇത് r തുല്യമാണ് ടെർമിനൽ 1 ഉം 2 ഉം പിന്തുണയ്ക്കുക കുറച്ച് ലോഡ് ഉണ്ട് ലീനിയർ 2 ടെർമിനൽ സർക്യൂട്ട് ഇതിന്റെ ഇടതുവശത്തുള്ള ഒരു വലിയ സർക്യൂട്ടാണ് പക്ഷേ ചില ടെർമിനലിൽ 1 ഉം 2 ഉം ഉണ്ട് കുറച്ച് ലോഡ് കണക്റ്റുചെയ്തിരിക്കുന്നു ഇവ വേരിയബിൾ ലോഡായിരിക്കാം ഈ ലോഡ് പ്രതിരോധം മാറുമ്പോഴെല്ലാം ഈ ലോഡ് മാറുന്നുവെന്ന് കരുതുക മുഴുവൻ സർക്യൂട്ടും പരിഹരിക്കേണ്ടതുണ്ട് അതിനാൽ തെവെനിന്റെ സിദ്ധാന്തം സൂചിപ്പിക്കുന്നത് ബാക്കിയുള്ള സർക്യൂട്ട് ആണെങ്കിൽ തുല്യമായ രണ്ട് ടെർമിനൽ സർക്യൂട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ഈ കണക്റ്റിനുശേഷം ഈ ലോഡ് റെസിസ്റ്റൻസ് r വഴി കറന്റ് എന്താണെന്ന് എളുപ്പത്തിൽ കണ്ടെത്താനാകും ഈ സർക്യൂട്ട് vThevenin RThevenin എന്നിവയാണെന്ന് തെവെനിന്റെ തുല്യത പറയുന്നു അതിനാൽ ഇത് vThevenin ആണ് ഇത് തുല്യമാണ് vThevenin RThevenin എന്നിവയുമായി ഈ ലോഡിനെ സീരീസുമായി ബന്ധിപ്പിക്കുന്നു ഇത് ലോഡ് റെസിസ്റ്റൻസ് ആണ് ഇതിനെ vThevenin എന്ന് വിളിക്കുന്നു ചിലപ്പോൾ ഇതിനെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്നും വിളിക്കുന്നു കൂടാതെ v oc പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും vThevenin എന്ന് വിളിക്കും അതിനാൽ അതിനെ നമ്മൾ എങ്ങനെ തെവെനിൻ ആർ വോൾട്ടേജ് എന്ന് വിളിക്കുന്നു അത് എങ്ങനെ നേടാമെന്നും RThevenin എന്നും പഠിക്കേണ്ടതുണ്ട് RThevenin എന്നതിനുപകരം ആ സമയത്ത് ac സർക്യൂട്ട് വരുമ്പോൾ അത് zThevenin ആയിരിക്കും അവിടെ ഇംപെഡൻസ് ഭാഗം കാണും ഈ കറന്റ് I ന് സമാനമാണ് അതിനാൽ ഇത് തെവെനിൻ തുല്യമായ സർക്യൂട്ട് ആണ് പക്ഷേ ഇത് എങ്ങനെ ചെയ്യാം